ഹലോ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള വർധിച്ചുവരുന്നു ഇപ്പോൾ മൊബൈൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലവ് നിർണ്ണയിച്ചാൽ പ്രത്യേകിച്ചും കാലതാമസം കൂടുതലാണെങ്കിൽ അത് അപ്രാപ്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അത് വിശ്വാസ്യതയുടെ ഒരു ചോദ്യമാണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്ക് യെയും പ്രക്രിയകളെയും സംബന്ധിച്ച മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്കയുണ്ട് അതിനാൽ ഇത് വളരെ തന്ത്രപ്രധാനമായ പ്രശ്നമായി മാറുന്നു എന്നിരുന്നാലും നിരവധി കാരണങ്ങളാൽ മൊബൈൽ ഇന്ററോപ്പറബിളിറ്റി പ്രശ്നം കൈമാറുന്നതിലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ പങ്കിടുന്നതിലും പ്രശ്നങ്ങളുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിണാമം നമ്മൾ കാണുന്നത് ഉപകരണങ്ങളുടെ ഇന്റർനെറ്റ് പ്രവർത്തനക്ഷമമാകുന്നിടത്ത് ക്ലൌഡ് മാനേജിംഗിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള നമ്മുടെ മുൻ പ്രഭാഷണത്തിൻ്റെ തുടർച്ചയായി മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള ചില വശങ്ങൾ നമ്മൾ പരിശോധിക്കും അതിൻ്റെകൂടെ ചില ഗവേഷണ പ്രവർത്തനങ്ങൾ റഫർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം വ്യത്യസ്ത വെല്ലുവിളികൾ എന്താണെന്നും അവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും മറ്റും എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള മികച്ച കാഴ്ചപ്പാട് നമുക്ക് നൽകും അതിനാൽ നമ്മൾ ഒരു മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലേക്ക് നോക്കും കാരണം ഊർജ്ജ സംരക്ഷണ നിർവ്വഹണ വശത്തെ ഫലപ്രദമായി ഉപയോഗം ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷന്റെ ചലനാത്മക പാർട്ടീഷൻ ആവശ്യമാണ് എന്നതാണ് ചില പ്രധാന വെല്ലുവിളികൾ അതിനാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഊർജ്ജ സംരക്ഷണം എക്സിക്യൂഷൻ സമയം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നിവയാണ് സമയം ഒരു പരിധിക്കപ്പുറമാണെങ്കിൽ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പ്രോസസ്സ് പ്രാപ്തമാകണമെന്നില്ല ആപ്ലിക്കേഷന്റെ ഏതെല്ലാം ഭാഗങ്ങൾ പ്രാദേശികമായി എക്സിക്യൂട്ട് ചെയ്യുമെന്നും ആപ്ലിക്കേഷൻ സമാരംഭിക്കുമ്പോൾ ആപ്ലിക്കേഷന്റെ ഏത് ഭാഗമാണ് ബാഹ്യമായി അല്ലെങ്കിൽ വിദൂരമായി അല്ലെങ്കിൽ ക്ലൌഡിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ചില മിഡിൽവെയർ ഇതിന് ആവശ്യമാണ് അതിനാൽ ഇത് ഒരു ക്ലാസിക് ഒപ്റ്റിമൈസേഷൻ പ്രശ്നമാണ് അതിനാൽ ഈ ആപ്ലിക്കേഷനെ വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ആപ്ലിക്കേഷന്റെ ചില ഭാഗങ്ങളോ ഘടകങ്ങളോ പ്രാദേശികമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ചിലത് വിദൂരമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഇത് സ്ഥിരമായി ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മുൻകൂട്ടി അറിവുള്ളതുപോലെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പ്രാദേശികമായി അല്ലെങ്കിൽ വിദൂരമായി പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മുൻകൂട്ടി അറിയില്ലായിരിക്കാം പ്രാഥമികമായി അത് ഡാറ്റയെയും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ അതിനാൽ ഇവയും എല്ലാ കാര്യങ്ങളും എനിക്ക് ചലനാത്മകമായി വേണമെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമന്വയിപ്പിക്കേണ്ട ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു സെൻസ് ഷെഡ്യൂളിംഗും റിസോഴ്സ് മാനേജുമെന്റും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലേ അതിനാൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം വിവിധ അധികാരികളുടെ ഉടമസ്ഥതയിലുള്ളതും പരിപാലിക്കുന്നതുമായ ഉപകരണങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾ പ്രത്യേകമായി ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ശ്രമകരമാണ് മൊബൈൽ പരിപാലിക്കുന്നത് മറ്റ് മൂന്നാം കക്ഷികളാണ് ഇടനിലക്കാരായി നിങ്ങളുടെ സേവന ദാതാവുണ്ട് അവർക്ക് വീണ്ടും വ്യത്യസ്ത തരം അധികാരമുണ്ട് അതിനാൽ ഇവയെല്ലാം വളരെ സങ്കീർണ്ണമായ ഒരു പ്രശ്നമുണ്ടാക്കുന്നു അത് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പേപ്പറിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയാണിത് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുള്ള മൊബൈൽ സെർവറിൽ രീതി നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ MAU ഫ്രെയിംവർക്ക് വ്യാഖ്യാനം ഉപയോഗിക്കുന്നു അതിനാൽ പലതരം സമയങ്ങളുണ്ട് ക്ലൌഡിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഈ പ്രക്രിയയും ഡാറ്റ ഘടകത്തിലുള്ള ഒരു MAU സെർവർ ഉണ്ട് അതിനാൽ ഒരു ക്ലയന്റ് സെർവർ തരത്തിലുള്ള വാസ്തുവിദ്യയുണ്ട് അവിടെ അവർ നിർദ്ദേശിക്കുന്നത് സമന്വയിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു പ്രൊഫൈലറും സോൾവർ പ്രൊഫൈലറും അടിസ്ഥാനപരമായി ആപ്ലിക്കേഷന്റെയും പ്രൊഫൈലിന്റെയും പ്രൊഫൈലിംഗും സെർവർ പാർട്ടീഷനുകൾക്കൊപ്പം ഈ ഗേറ്റുകൾ ഇവിടെ നടപ്പിലാക്കിയ ആപ്ലിക്കേഷനും ആർപിസി കോളുകളും തുടർന്ന് രണ്ട് നാല് കാര്യങ്ങളും അപ്ലിക്കേഷനിൽ ചില ഭാഗങ്ങളിലും ഉപകരണത്തിൽ ചില ഭാഗങ്ങളിലും സ്മാർട്ട് മൊബൈൽ ഡിവിഡർ എസ്എംഡിയിലും ചിലത് ക്ലൌഡിലും പ്രവർത്തിക്കുമ്പോൾ ലാൻ സെർവർ സ്വയം സമന്വയിപ്പിക്കുന്നതിന് പ്രൊഫൈലുമായി ആശയവിനിമയം നടത്തുന്നു അതിനാൽ മറ്റൊരു പ്രവൃത്തിയുണ്ട് അതിനെ കോമറ്റ് ക്വാഡ് എന്ന് വിളിക്കുന്നു എക്സിക്യൂഷൻ സുതാര്യമായി മൈഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ കോഡ് ഓഫ്ലോഡിംഗ് എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വേഗത്തിൽ കാണുന്നതിന്റെ കാതൽ ഇതാണ് അതിനാൽ അതുപോലെ തന്നെ ഒരു ഫോൺ OS ഉം വിദൂര OS ഉം ഉണ്ട് അതിനാൽ ഈ മെമ്മറി ട്രാഫിക്കിനെ മെച്ചപ്പെടുത്താനും കഴിയും അതിനാൽ ഇത് മുഴുവൻ ഹീപ്പ് അനുബന്ധ OS ആയിരിക്കാം അതിനാൽ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നത് പരിശോധിക്കേണ്ട ഒരു വൈവിധ്യമാർന്ന അന്തരീക്ഷമാണിത് അതിനാൽ മറ്റ് കമ്പ്യൂട്ടർ പ്രശ്നത്തിൽ നമ്മൾ സാധാരണയായി കാണുന്നത് അതിനാൽ ഇത് ഒരു കോൾ ഗ്രാഫ് ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജവും മറ്റൊന്ന് കാര്യങ്ങൾ കൈമാറുന്നതിനായി ഉള്ളതാണ് മറ്റേ എൻഡ് അതായത് ക്ലൌഡ് ഉപകരണത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ് സെറ്റ് ക്ലൌഡിലെ എക്സിക്യുട്ടിലേക്ക് പോകുന്നു അതിനാൽ ലക്ഷ്യവും പരിമിതിയും പരിശോധിച്ചാൽ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കണം അതിനാൽ എനിക്ക് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷന്റെ നിർവ്വഹണ സമയത്തിന് ഒരു പരിധിയുണ്ട്

അതിനാൽ ഇത് ത്രെഷോൾഡ്ചെയ്യാൻ കഴിയാത്തതുപോലെ ആപ്ലിക്കേഷന്റെ ചില ഭാഗം ഉപകരണത്തിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായി വന്നേക്കാം കാര്യത്തിന്റെ ആകെ ചെലവ് ഞാൻ നോക്കാം മൊത്തം ചെലവ് അതിനേക്കാൾ കൂടുതൽ ഭാഗം നിർവ്വഹിക്കാൻ പാടില്ല അതിനാൽ ഇവ ആവശ്യമാണ് അതിനാൽ ഗണിതശാസ്ത്രപരമായി അല്പം നോക്കിയാൽ ഇവയിൽ v1 v4 v9 എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ടാസ്കാണ് ഉപകരണത്തിൽ നടപ്പിലാക്കാൻ കഴിയും അതിനാൽ ഇത് പ്രാദേശിക ഉപകരണത്തിലേക്ക് ഓഫ്ലോഡ് ഉപകരണം വഹിക്കേണ്ടതുണ്ട് അതിനാൽ അത് അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് പരമാവധി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഫലം പോസിറ്റീവ് അല്ലെങ്കിൽ പരമാവധി ആണെങ്കിൽ നിങ്ങൾക്ക് പരമാവധിയാക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ഗണ്യമായ ഊർജ്ജം ലാഭിക്കാം അല്ലാത്തപക്ഷം അവിടെ ആ അവകാശം ചെയ്യുന്നതിന്റെ പ്രയോജനമൊന്നുമില്ല തീർച്ചയായും ഇത് മൊത്തം എക്സിക്യൂഷൻ ലേറ്റൻസിയിൽ ചെയ്യേണ്ട എക്സിക്യൂഷന്റെ ആശ്രിതത്വം ഞാൻ നോക്കേണ്ടതുണ്ട് ഗ്രാഫിൽ ഒരു ഡിപൻഡൻസി ഉണ്ടെങ്കിൽ അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ രണ്ട് തരം പാർട്ടീഷനിംഗ് ഉണ്ട് ഒന്ന് സ്ഥിരവും മറ്റൊന്ന് ചലനാത്മകവുമാണ് നമ്മൾ കണ്ടതുപോലെ ആപ്ലിക്കേഷൻ സമാരംഭിക്കുമ്പോൾ ഒരു സ്റ്റാറ്റിക് ആണെങ്കിൽ അത് ഒരു ഐഎൽപി സോൾവറിനെ വിളിക്കുന്നു ഒപ്പം ഓരോ രീതിയും എവിടെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് അത് പറയുന്നു അതിനാൽ അത് സമാരംഭിക്കുമ്പോൾ അത് സ്റ്റാറ്റിക്കൽയുടെ ആവശ്യകത പോലെ വ്യത്യാസപ്പെടാം ബാൻഡ്വിഡ്ത്ത് കൈമാറ്റം ചെയ്യുന്ന വിദൂര വിഭവങ്ങളുടെ ലഭ്യത പോലും അവയെല്ലാം വ്യത്യാസപ്പെടാം ഇൻപുട്ടിനെ ആശ്രയിച്ച് ഒരു രീതിയുടെ ഊർജ്ജ ഉപഭോഗം അങ്ങനെ വ്യത്യാസപ്പെടാം അതിനർത്ഥം മറ്റൊരു അർത്ഥത്തിൽ ഞാൻ ഹോസ്റ്റുചെയ്യുന്ന കാര്യങ്ങളുടെ വ്യത്യസ്ത സ്വഭാവം കാരണം പ്രാദേശികമായും വിദൂരമായും ഏത് പാർട്ടീഷൻ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിളിക്കേണ്ടതുണ്ട് അതിനാൽ അത് ഇവിടെ മറ്റൊരു വെല്ലുവിളിയാണ് അതിനാൽ ഇത്തരത്തിലുള്ള പാർട്ടീഷനിംഗും കൈമാറ്റവും ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ ജോലി പ്രാദേശികമായി എന്തെങ്കിലും വിദൂരമായി എന്തെങ്കിലും അല്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ എല്ലാം ഒരു പ്രത്യേക പരിധി മൂല്യങ്ങൾ പരിധി സമയം എന്നിവ നിർവ്വഹിക്കുന്നു ഒപ്പം ഊർജ്ജ ലാഭം പരമാവധി വർദ്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവ വ്യത്യസ്ത പരിമിതികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേടുന്നതിന് അതിനാൽ നിരവധി വെല്ലുവിളികളും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ വയർലെസ് നെറ്റ്വർക്കിന്റെ റേഡിയോ റിസോഴ്സ് കാരണം വയർലെസ് നെറ്റ്വർക്കുകളേക്കാൾ വളരെ വിരളമാണ് കാരണം കുറഞ്ഞ ബാൻഡ്വിഡ്ത്ത് ഉള്ള മൊബൈൽ ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ വയർലെസ് ബാൻഡ്വിഡ്ത്ത് ലഭ്യത വളരെ കുറവാണ് അതിനാൽ അത് കുറവാണ് മാത്രമല്ല ഇത് ദീർഘനേരം പ്രവർത്തിക്കുന്ന എക്സിക്യൂഷൻ എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രക്രിയ ആണെങ്കിൽ അത് വ്യത്യാസപ്പെടുന്നു അതിനാൽ ഒരു ഗ്യാരണ്ടീഡ് ബാൻഡ്വിഡ്ത്ത് ലഭിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് സേവന ലഭ്യതയിൽ ട്രാഫിക് തിരക്ക് നെറ്റ്വർക്ക് പരാജയം മൊബൈൽ ചെയ്യാൻ കഴിയും ഓഫ്ലോഡുചെയ്യുന്നത് ഊർജ്ജം ലാഭിക്കുന്നതിൽ എല്ലായ്പ്പോഴും ഫലപ്രദമല്ല കാരണം ആ പാരാമീറ്ററുകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ അത് ഊർജ്ജ ലാഭിക്കലായിരിക്കില്ല ആ ഉദ്ധരണിക്കുള്ളിൽ നമ്മൾ പറയുന്നതാകണമെന്നില്ല ലാഭകരമായ മാർജിൻ അവകാശം അതിനാൽ ഇത് വിലയേറിയ സ്റ്റഫ് ആയിരിക്കാം ഓഫ്ലോഡ് ചെയ്യണം തുടങ്ങിയവ തീരുമാനിക്കേണ്ടത് ഒരു പ്രധാന വെല്ലുവിളിയാണ് അതിനാൽ മറ്റ് പരീക്ഷണങ്ങളോ മറ്റ് തരത്തിലുള്ള സംരംഭങ്ങളോ ഉണ്ട് ഒന്ന് ക്ലൌഡ്ലെറ്റ് ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളുടെ പ്രദേശത്തിനകത്താണ് അതിനാൽ കോഡ് ഓഫ്ലോഡിംഗ് സാന്നിധ്യം എനിക്ക് ഉണ്ടോ എന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഇത് ഒരൊറ്റ ഹോപ്പ് ആണെങ്കിൽ ആ വിഭവങ്ങൾ ഉപകരണവുമായി വളരെ അടുത്തായിരിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജ ലാഭവും മികച്ച പ്രതികരണ സമയവും നേടാൻ കഴിയും അതിനാൽ ക്ലൌഡ്ലെറ്റ് ഉപയോഗിച്ച് ക്ലൌഡ് ഉപകരണങ്ങളുമായി അടുത്തിരിക്കുന്ന സെർവറുകൾ ഉപയോഗിക്കുക അതിനർത്ഥം പൂർണ്ണ സ്ഥല ക്ലൌഡ്നുപകരം നമുക്ക് ക്ലൌഡുകളുടെ അല്ലെങ്കിൽ ക്ലൌഡ്ലെറ്റിന്റെ സംയോജനത്തിൽ നിന്ന് ഉണ്ടാകുന്നു മൊബൈൽ എപ്പോൾ ചെയ്യണം എന്നത് വീണ്ടും ഗുരുതരമായ ചോദ്യമാണ് അതിനാൽ കാര്യങ്ങളുടെ വളരെ നേരായ രൂപീകരണം നോക്കിയാൽ നമ്മൾ ആ സമവാക്യം നോക്കുകയാണെങ്കിൽ മൊബൈൽ ൻ്റെ വേഗത അതിനാൽ ഇത് എസ് ആണെങ്കിൽ ഇത് Ps ആണ് S എന്നത് ക്ലൌഡി സമയം വേഗത്തിലാണെന്ന് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ എനിക്ക് S FxM കാണാൻ കഴിയും അതായത് സി നിർദ്ദേശം കണക്കുകൂട്ടുന്നതിനുള്ള ക്ലൌഡിന്റെ വേഗതയാണ് എസ് സി നിർദ്ദേശങ്ങൾ കണക്കുകൂട്ടുന്നതിനുള്ള മൊബൈൽ Ptr ന് തുല്യമാണ് അതിനാൽ സൂത്രവാക്യം ഒരു പോസിറ്റീവ് സംഖ്യ ഉൽപാദിപ്പിക്കുമ്പോൾ ഊർജ്ജം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് തീർച്ചയായും ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഊർജ്ജം മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ സി എം നെ അപേക്ഷിച്ച് ഡി എ ഡി ബി മതിയായത്ര ചെറുതാണെങ്കിൽ ഫോർമുല പോസിറ്റീവ് ആണ് ഒരു വശത്ത് ഡി ബൈ ബി സി യെ എം നെ അപേക്ഷിച്ച് ചെറുതായിരിക്കണം അതിനാൽ എനിക്ക് ഇടതുവശത്ത് ഒരു വലിയ സംഖ്യയുണ്ട് അതിനാൽ ക്ലൌഡ് ഉപകരണങ്ങളിൽ നിന്ന് ഊർജ്ജം ലാഭിക്കാൻ കഴിയും ക്ലൌഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഊർജ്ജ കാര്യക്ഷമമായ എല്ലാ ആപ്ലിക്കേഷനുകളും ഊർജ്ജ കാര്യക്ഷമമായിരിക്കില്ല അതിനാൽ ഈ സൂത്രവാക്യത്തിൽ നിന്ന് ഇതിനകം തന്നെ പറയുക ഒന്നാമതായി ഡി ബി സി എമ്മിനേക്കാൾ കുറവായിരിക്കണം എഫ് ആവശ്യത്തിന് ഉയർന്നതായിരിക്കണം

മൊബൈൽ സേവനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കണം കാരണം അവ ഈ സാഹചര്യത്തിൽ ഊർജ്ജ ലാഭം നൽകണം ഈ സാഹചര്യങ്ങളിൽ നമ്മൾ നേരിട്ട് പരിഗണിക്കാത്ത സ്വകാര്യത സുരക്ഷ വിശ്വാസ്യത ഡാറ്റ ആശയവിനിമയം തുടങ്ങിയവയ്ക്കുള്ള ഊർജ്ജ ഓവർഹെഡ് സേവനങ്ങൾ പരിഗണിക്കണം അതിനാൽ കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ മറ്റ് തരത്തിലുള്ള സവിശേഷതകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ സൂത്രവാക്യം പരിശോധിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം പരിശോധിച്ചാൽ താരതമ്യേന ചെറിയ അളവിലുള്ള ഡാറ്റ പ്രയോജനകരമാണ് അതിനാൽ താരതമ്യേന കുറഞ്ഞ ഡാറ്റ പ്രക്ഷേപണം ഉപയോഗിച്ച് നമ്മൾക്ക് വലിയ അളവിലുള്ള കണക്കുകൂട്ടൽ ആവശ്യമാണ് ഇവിടെ നമ്മൾ കണ്ടതുപോലെ സി ആവശ്യത്തിന് വലുതും ഡി ആവശ്യത്തിന് ചെറുതും ആയിരിക്കണം എഫ് വളരെ വേഗതയുള്ളതായിരിക്കണം മാത്രമല്ല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ പാർട്ടി കണക്കുകൂട്ടൽ ഓവർലോഡിംഗിന് നിരവധി സമീപനങ്ങളുണ്ട് നിങ്ങൾക്ക് നിരവധി ഗവേഷണ പ്രബന്ധങ്ങളിലും കാണാൻ കഴിയും നടപ്പാക്കുന്നതിന് മുമ്പ് ഊർജ്ജ ഉപഭോഗം കണക്കാക്കുന്നതിനെ അടിസ്ഥാനമാക്കി ഒരു പ്രോഗ്രാം വിഭജിക്കുക അതിനാൽ നമ്മൾ പറയുന്നത് കാര്യത്തിന്റെ പ്രീ പാർട്ടീഷൻ അടിസ്ഥാനമാക്കി ചലനാത്മകമായി കണക്കാക്കുന്നു നടപടിക്രമകോളുകളുടെ തലത്തിൽ കണക്കുകൂട്ടൽ സമയ ഡാറ്റ സംരക്ഷിക്കപ്പെടണം എന്ന മുൻ ധാരണയിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ ധാരാളം കണക്കുകൂട്ടലുകൾ ഉൾപ്പെടുന്നു സുരക്ഷ വിശ്വാസ്യത സെർവർ സിസ്റ്റത്തിലെ തെറ്റ് തുടങ്ങിയ ഘടകങ്ങളുടെ മറ്റ് നിരവധി വശങ്ങളുണ്ടെന്ന് നമ്മൾ കാണുന്നു കൂടാതെ മൊബൈൽ അറ്റത്തുള്ള ഉപയോക്താവിന് തടസ്സമില്ലാത്ത വികാരമോ മികച്ച വിഭവ വിനിയോഗമോ മികച്ച ഊർജ്ജ ലാഭമോ ലഭിക്കുന്നു